നമുക്ക് ഇപ്പോൾ തുടരാം അടുത്ത കുറച്ച് വീഡിയോകളിൽ യൂണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നുകളെക്കുറിച്ചും പ്രിൻസിപ്പിൾ ഐഡിയൽ ഡൊമെയ്നുകളെക്കുറിച്ചും നമുക്ക് നോക്കാം അതിന് മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചില തെറ്റായ കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട് ഇതാണ് ആ തിരുത്തൽ ഇത് ഞാൻ വരുത്താൻ ആഗ്രഹിക്കുന്ന തിരുത്തലാണ് ഇത് ഞാൻ മുൻപ് നടത്തിയ പരാമർശമാണ് അതിനാൽ ഓർക്കുക Z ന് മുകളിലുള്ള ഒരു വേരിയബിളിലെ പോളിനോമിയൽ റിംഗ് നോതേറിയൻ ആണെന്ന് നമുക്കറിയാം നമുക്ക് തീർച്ചയായും അറിയാം കാരണം നമുക്ക് ഹിൽബർട്ട് അടിസ്ഥാന സിദ്ധാന്തം ശരിയായി ഉപയോഗിക്കാം കഴിഞ്ഞ തവണ നമ്മൾ തെളിയിച്ച ഹിൽബർട്ട് ബേസിസ് തിയറം നിങ്ങൾക്ക് ഒരു നോഥേറിയൻ റിംഗ് ഉണ്ടെങ്കിൽ അതായത് R നോതേറിയൻ RX നോതേറിയൻ എന്ന് സൂചിപ്പിക്കുന്നുവെന്ന് പറയുന്നു അതിനാൽ ഒരു വേരിയബിളിലെ പോളിനോമിയൽ റിംഗ് അല്ലെങ്കിൽ ഒരു നോഥേറിയൻ റിംഗ് നോതെറിയൻ ആണ് സംഖ്യകളുടെ റിംഗ് നോതേറിയൻ ആണെന്ന് നമുക്കറിയാം കാരണം ഇസഡിലെ എല്ലാ ഐഡിയലും യഥാർത്ഥത്തിൽ പ്രിൻസിപ്പൽ ആണ് അത് കൃത്യമായി ജനറേറ്റുചെയ്യുന്നു അതുകൊണ്ട് ഇസഡ് എക്സ് നോതേറിയൻ ആണ് ഇസഡ് എക്സിലെ ഓരോ ഐഡിയലും 2 ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതാണ് ഞാൻ ചെയ്ത തെറ്റ് അതിനാൽ ഇപ്പോൾ ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്ന പ്രസ്താവന ഇതാണ് ZX ന്റെ ഓരോ ഘടകങ്ങളും 2 ഘടകങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണെന്നത് ശരിയല്ല ഇത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു പ്രോബ്ലം ആയി ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു ഹിൽബെർട്ട് അടിസ്ഥാന സിദ്ധാന്തം ഉപയോഗിക്കാതെ ZX നോതേറിയൻ ആണ് എന്ന ആ പ്രസ്താവന നിങ്ങൾക്കറിയാം പക്ഷേ ഇത് ശരിയല്ല അതിനാൽ വാസ്തവത്തിൽഐഡിയൽ ആയുള്ള ഘടകങ്ങളുണ്ട് ക്ഷമിക്കണം ഘടകം എന്ന് പറയരുത് ZX ന്റെ എല്ലാ ഐഡിയലും സൃഷ്ടിക്കുന്നത് 2 ഘടകങ്ങളാണെന്നത് തെറ്റാണ് വാസ്തവത്തിൽ ZX ൽ മൂന്ന് ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഐഡിയൽ ഉണ്ട് അവ 2 ഘടകങ്ങളാൽ പൊതുവായി സൃഷ്ടിക്കാൻ കഴിയില്ല വാസ്തവത്തിൽ നമുക്ക് ഉണ്ട് ഏതൊരു n നും n എലമെൻറ്സ് സൃഷ്ടിക്കുന്ന ZX ന്റെ ഐഡിയൽ ഉണ്ട് പക്ഷേ n മൈനസ് 1 ഘടകങ്ങൾ അല്ല അതിനാൽ ഇത് എനിക്ക് തെളിയിക്കാൻ കഴിയാത്ത ഒന്നാണ് ഇത് തെളിയിക്കാൻ റിംഗ് തിയറിയിൽ കുറച്ച് കൂടി കൂടുതൽ വിദ്യകൾ ആവശ്യമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും സമയം ചിന്തിക്കാനാകുമെന്ന് ഞാൻ ഉറപ്പിച്ചുപറയുന്നു 4 2 എക്സ് എക്സ് സ്ക്വയർ എന്നിവ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഐഡിയൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതായത് ഐ എന്നത് മൂന്ന് ഘടകങ്ങൾ 4 2 എക്സ് എക്സ് സ്ക്വയർ എന്നിവ അനുസരിച്ചാണ് നിർവചിച്ചിരിക്കുന്നത് ഐ മൂന്നിൽ കുറവ് ഘടകങ്ങൾ ഉപയോഗിച്ചല്ല സൃഷ്ടിച്ചത് അതിനാൽ ഐ പ്രിൻസിപ്പൽ അല്ല അത് കാണിക്കാൻ പ്രയാസമില്ല പക്ഷേ ഏതെങ്കിലും 2 ഘടകങ്ങളാലും ഐ സൃഷ്ടിക്കപ്പെടുന്നില്ല അതായത് എടുക്കുന്ന 2 ഘടകങ്ങളൊന്നും ഐ സൃഷ്ടിക്കുന്നില്ല അതാണ് ഐ ജനറേറ്റ് ചെയ്യുന്നതിന് കുറഞ്ഞത് മൂന്ന് ഘടകങ്ങളെങ്കിലും ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞത് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കോഴ്സിൽ നമ്മൾ ഉൾപെടുത്താത്ത ചില വിദ്യകൾ ആവശ്യമാണ് എന്നാൽ ഇത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് ഓർക്കുക ഇസഡ് എക്സ് നോതേറിയൻ ആണെന്ന വസ്തുത ഇപ്പോഴും ശരിയാണ് ഇസഡ് എക്സ് ന്റെ എല്ലാ ഐഡിയലും 2 ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നു എന്ന ശക്തമായ പ്രസ്താവന നമുക്ക് ആവശ്യമില്ല ഇസഡ്എക്സിന്റെ എല്ലാ ഐഡിയലും കൃത്യമായി ജനറേറ്റുചെയ്യുന്നുവെന്ന ഈ പ്രസ്താവന മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഉദാഹരണത്തിൽ ഐ തീർച്ചയായും കൃത്യമായി ജനറേറ്റുചെയ്തു കാരണം ഇത് മൂന്ന് ഘടകങ്ങളാൽ ജനറേറ്റുചെയ്തതാണ് ഇത് മൂന്നിൽ കുറവ് ഘടകങ്ങൾ ഉപയോഗിച്ചല്ല ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നു അതിനാൽ ഇത് ഒരു തിരുത്തൽ മാത്രമാണ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത ഈ ഉദാഹരണത്തിൽ നോഥേറിയൻ വളയങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ഈ ഒരു തിരുത്തൽ ആവശ്യമാണ് അതിനാൽ അടുത്ത ലക്ഷ്യം കോഴ്സിലെ അടുത്ത വിഷയം അവതരിപ്പിക്കുക എന്നതാണ് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയ്നുകൾ വളരെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ എന്ന നിലയിൽ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയ്നുകൾ PID എന്ന് ഞാൻ സൂചിപ്പിക്കും യുണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നുകൾ അതിനാൽ ഇവയെ യുഎഫ്ഡി എന്ന് വിളിക്കുന്നു ഇവയുടെ ചുരുക്കെഴുത്തുകളാണ് ഇത് ഇവ പ്രത്യേക തരം റിങ്സ് ആണ് അതിനാൽ ചില നല്ല ഗുണങ്ങളുള്ള റിങ്സ് ആണിവ ഈ വീഡിയോയിലും അടുത്ത 2 അല്ലെങ്കിൽ 3 വീഡിയോകളിലും നമ്മൾ ഇവ ചർച്ച ചെയ്യും അതിനാൽ ഈ റിംഗ്സിന്റെ കൃത്യമായ സവിശേഷതകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് ചില പൊതുവായ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ അനുവദിക്കുക ചില പൊതുവായ കാര്യങ്ങൾ അതിനാൽ ഇന്നത്തെ വീഡിയോയിലും അടുത്ത കുറച്ച് വീഡിയോകളിലും നമ്മൾ ഇന്റഗ്രൽ ഡൊമെയ്നുകളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കും അതിനാൽ നമ്മൾ അവതരിപ്പിക്കുന്ന പല ആശയങ്ങൾക്കും ഇന്റഗ്രൽ ഡൊമെയ്നുകളിൽ മാത്രമേ സാധുതയുള്ളൂ നമ്മൾ ഇത് ചെയ്യാൻ കാരണം പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈനുകൾ യൂണിക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നുകൾ എന്നിവയിലെ ഡൊമെയ്ൻ എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ അവ യഥാർത്ഥത്തിൽ ഇന്റഗ്രൽ ഡൊമെയ്നുകളുംഅഡിഷണൽ പ്രോപ്പർടീസും ആണ് അതിനാൽ നമ്മൾ ഇന്റഗ്രൽ ഡൊമെയ്നുകളിൽ ഉറച്ചുനിൽക്കാൻ പോകുന്നു അതിനാൽ നമുക്ക് ഇത് ആരംഭിക്കാം R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നായിരിക്കട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ആശയങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നതിനാൽ പൂർണ്ണസംഖ്യകളുടെ ഉദാഹരണം മനസ്സിൽ വയ്ക്കുക ഈ ആശയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പൂർണ്ണസംഖ്യകളെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്തതാണ് അതിനാൽ പൂർണ്ണസംഖ്യകളിലുള്ള നല്ല സവിശേഷതകൾ നമ്മൾ പരിശോധിക്കുകയും അവയെ കൂടുതൽ റിങ്ങുകളിലേക്ക് സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ പ്രക്രിയയിൽ ചില നിർവചനങ്ങൾ നൽകാം ഇവ നിർവചനങ്ങൾ അല്ലെങ്കിൽ നൊട്ടേഷനുകൾ മാത്രമാണ് അതിനാൽ a b എന്നിവ R ന്റെ രണ്ട് ഘടകങ്ങളായിരിക്കട്ടെ ഇത് വളരെ സാധാരണ ഭാഷയാണ് അതിനാൽ ഇത് കൂടുതൽ ഔദ്യോഗികമായി നിർവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭാവിയിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും b എന്നത് a യെ ഭാഗിക്കുന്നു അല്ലെങ്കിൽ b നെ a യുടെ ഹരണമാണെന്ന് നമ്മൾ പറയുന്നു പൂർണ്ണസംഖ്യകൾക്കായുള്ള വിഭജനം എന്ന ആശയം നിങ്ങൾക്ക് പരിചിതമാണ് അതിനാൽ ഇത് ഏകപക്ഷീയമായ ഇന്റഗ്രൽ ഡൊമെയ്നിലേക്ക് സാമാന്യവൽക്കരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു b a യെ ഹരിക്കുന്നു അല്ലെങ്കിൽ b എന്നത് a യുടെ ഒരു ഹരണമാണ് എന്ന് നമ്മൾ പറയുന്നു R യിലെ ചില c ക്ക് bc ഈക്വൽ ടു a ആയിരിക്കും അതിനാൽa b യുടെ ഗുണിതമാണെങ്കിൽ b a യെ വിഭജിക്കുന്നുഉദാഹരണത്തിന് 3 12 നെ വിഭജിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് അതിനർത്ഥം 3 ഇന്റു 4 എന്നത് 12 ആണ് അതിനാൽ ഇത് ഇപ്പോൾ ഒരു റിംഗ് സാഹചര്യത്തിലേക്ക് സാമാന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇത് ഒരു പദമായി b ഹരണം a എന്ന് എഴുതുന്നതിനുപകരംഒരു നൊട്ടേഷൻ ഉപയോഗിക്കുന്നു ഇത് സൌകര്യപ്രദമാണ് നമ്മൾ b വെർട്ടിക്കൽ ബാർ a എന്ന് എഴുതുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രസ്താവനയെ ആണ് b a യെ വിഭജിക്കുന്നു അല്ലെങ്കിൽ b എന്നത് a യുടെ ഹരണമാണ് മറുവശത്ത് ഒരു പ്രോപ്പർ ഡിവൈസറിന്റെ സങ്കൽപം അവതരിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു b എന്നത് a യുടെ പ്രോപ്പർ ഡിവൈസർ ആകണമെങ്കിൽ തീർച്ചയായുംc യുടെ ഏതെങ്കിലും ഒരു മൂല്യത്തിന് bc ഈക്വൽ ടു a ആയിരിക്കും b അല്ലെങ്കിൽ c ഒരു യൂണിറ്റ് ആയിരിക്കില്ല ഇത് ഇവിടെ ഒരു പ്രധാന ആശയമാണ് അതിനാൽ ഞാൻ ഇത് വിശദീകരിക്കട്ടെ ഒന്നാമതായി ഒരു പ്രോപ്പർ ഡിവൈസർ ആകുന്നതിനു അത് ഒരു ഡിവൈസർ ആകണം പക്ഷേ വ്യക്തമായ ചില ഡിവൈസേഴ്സിനെ തള്ളിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ട്രിവിയൽ ഡിവൈസേഴ്സിനെ പരിഗണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഞാൻ ഒരു പ്രോപ്പർ ഡിവൈസർ എന്ന ആശയം അവതരിപ്പിക്കുന്നുപ്രോപ്പർ ഡിവൈസർ എന്നാൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ആദ്യം തന്നെ b അതിനെ വിഭജിക്കണംc യുടെ ഏതെങ്കിലും ഒരു മൂല്യത്തിന് bc ഈക്വൽ ടു a ആയിരിക്കും b അല്ലെങ്കിൽ c ഒരു യൂണിറ്റ് ആയിരിക്കില്ല ഇതെല്ലാം ഓർക്കുക അതിനാൽ ഒരു റിങ്ങിലെ ഒരു യൂണിറ്റ് എന്നാൽ മൾട്ടിപ്ലിക്കേറ്റിവ് ഇൻവേഴ്സ് ഉള്ള ഒരു ഘടകമാണെന്ന് ഓർമ്മിക്കുക ഒരു വളയത്തിൽ എല്ലാ ഘടകങ്ങൾക്കും ഒരു മൾട്ടിപ്ലിക്കേറ്റിവ് ഇൻവേഴ്സ് ആവശ്യമില്ല എന്ന് ഓർമ്മിക്കുക ഇതിന് ഒരു മൾട്ടിപ്ലിക്കേറ്റിവ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു യൂണിറ്റ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് അങ്ങനെ തന്നെയാണ് പ്രോപ്പർ ഡിവൈസർ ആകുന്നതിന് ആദ്യം അത് ഒരു യൂണിറ്റാകാൻ പാടില്ല മാത്രമല്ല അത് ഗുണിച്ചാൽ കിട്ടുന്നതും ഒരു യൂണിറ്റാകാൻ കഴിയില്ല അതിനാൽ ഒരു ഉദാഹരണമായി 2 എന്നത് Z ൽ 10 ന്റെ പ്രോപ്പർ ഡിവൈസർ ആണെന്ന് പറയാൻ കഴിയും ഇതാണ് ഉദാഹരണം Z ൽ 2 എന്നത് 10 ന്റെ പ്രോപ്പർ ഡിവൈസർ ആണ് കാരണം 2 ഗുണം 5 10 ആണ് 2 ഉം 5 ഉം യൂണിറ്റുകളല്ല Z ലെ യൂണിറ്റുകൾ എന്തൊക്കെയാണ് Z ലെ ഏക യൂണിറ്റുകൾ പൂർണ്ണസംഖ്യ 1 ഉം പൂർണ്ണസംഖ്യ മൈനസ് 1 ഉം ആണെന്ന് വ്യക്തമാണ് അതിനാൽ 2 എന്നത് 10 ന്റെ പ്രോപ്പർ ഡിവൈസർ ആണ് മറുവശത്ത് 1 പ്രോപ്പർ ഡിവൈസർ അല്ല അത് ഒരു ഡിവൈസർ പക്ഷേ ഇത് 10 ന്റെ പ്രോപ്പർ ഡിവൈസർ അല്ല 1 എന്നത് ഒരു യൂണിറ്റായതിനാലാണ് അങ്ങിനെ സംഭവിക്കുന്നത് പ്രോപ്പർ ഡിവൈസർ ഒരു യൂണിറ്റ് ആകാൻ പാടില്ല അതുപോലെ മൈനസ് 10 ഉം 10 ഉം 10 ന്റെ പ്രോപ്പർ ഡിവൈസർ അല്ല കാരണം 10 ഗുണം 1 എന്നത് 10 ആണ് പക്ഷേ ഇത് ഒരു യൂണിറ്റാണ് അതുപോലെ മൈനസ് 10 ഗുണം മൈനസ് 1 ഉം 10 ആണ് പക്ഷെ ഇതും ഒരു യൂണിറ്റ് ആണ് അതിനാൽ 10 ഉം മൈനസ് 10 ഉം യഥാർത്ഥത്തിൽ 10 ന്റെ ഡിവൈസർ ആണ് എന്നാൽ 10 നേടുന്നതിന് നിങ്ങൾ അവയെ ഗുണിക്കുന്നത് ഒരു യൂണിറ്റ് കൊണ്ടാണ് അതിനാൽ 10 ഉം മൈനസ് 10 ഉം പ്രോപ്പർ ഡിവൈസർ അല്ല 1 ഉം ഒരു പ്രോപ്പർ ഡിവൈസർ അല്ല 10 ന് നിരവധി ഡിവൈസേഴ്സ് ഉണ്ട് എന്നാൽ അവയിൽ ചിലത് മാത്രം പ്രോപ്പർ ഡിവൈസർ ആണ് അവയിൽ ചിലത് അല്ല അതിനാൽ ഏത് റിങ്ങിലും ഇത് ഒരു പൊതു ധാരണയാണ് പ്രോപ്പർ ഡിവൈസർ എന്ന ആശയം നമുക്ക് ഉണ്ട് ഒരു നിർവചനം കൂടി നമ്മൾ പറയുന്നു R ൽ a b എന്ന രണ്ട് ഘടകങ്ങൾ ഉണ്ട് ഇപ്പോൾ ഞാൻ ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നിൽ തിരിച്ചെത്തി ഈ വീഡിയോയിൽ ഞാൻ അനിയന്ത്രിതമായ റിംഗിനെ പറ്റി പറയുന്നില്ലെന്ന് ഓർക്കുക ഞാൻ ഒരു ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നിനൊപ്പം പ്രവർത്തിക്കുന്നു ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിലെ a b എന്ന രണ്ട് ഘടകങ്ങൾ u വിന്റെ ഏതെങ്കിലും ഒരു വാല്യൂവിന് a ഈക്വൽ ടു bu ആണെങ്കിൽ അഥവാ എ ബി എന്നിവ പരസ്പരം തുല്യമായി വിഭജിച്ചാൽ അവ അസോസിയേറ്റുകളാണെന്ന് നമുക്ക് പറയാം അതിനാൽ അസോസിയേറ്റ്സ് എന്നാൽ a ഹരണം b b ഹരണം a ഓരോ ഘടകവും സ്വയം ഒരു അസോസിയേറ്റ് ആണ് എന്നാൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന രണ്ടോ അതിലധികമോ വ്യത്യസ്ത ഘടകങ്ങൾ കൂടി ഉണ്ടാകാം ഉദാഹരണത്തിന് 2 ഉം മൈനസ് 2 ഉം z ലെ അസോസിയേറ്റുകളാണ് 2 എന്നാൽ മൈനസ് 2 ഗുണം മൈനസ് 1ആണ് മൈനസ് 1 ഒരു യൂണിറ്റ് ആണ് അതിനാൽ അവർ അസോസിയേറ്റുകളാണ് 2 ഉം 3 ഉം അസോസിയേറ്റുകളല്ല 2 ഉം 4 ഉം അസോസിയേറ്റുകൾ അല്ല 2 ന്റെ ഏക അസോസിയേറ്റ് യഥാർത്ഥത്തിൽ 2 അല്ലെങ്കിൽ മൈനസ് 2 ആണ് അതിനാൽ Z ൽ ഇതാണ് സംഭവിക്കുന്നത് ഇനി നമുക്ക് R ഈക്വൽ ടു Z i ആകുന്ന മറ്റൊരു ഉദാഹരണം നോക്കാം Z i എന്നത് ഒരു a പ്ലസ് ib രൂപത്തിലുള്ള എല്ലാ കോംപ്ലക്സ് സംഖ്യകളുടെയും റിങ്ങാണ് ഇവിടെ a b എന്നിവ പൂർണ്ണസംഖ്യകളാണ് ഇത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് ഇത് ഫീൽഡിന്റെ സബ് റിങ് ആയതുകൊണ്ട് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് അതിനാൽ ഈ റിംഗിലെ അസോസിയേറ്റുകളെക്കുറിച്ചും R ന്റെ യൂണിറ്റുകൾ എന്താണെന്നും നമുക്ക് നോക്കാം ഞാൻ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമയില്ല പക്ഷേ ഈ കോഴ്സിന്റെ തുടക്കത്തിൽ എപ്പോഴെങ്കിലും ഇത് സൂചിപ്പിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു Z i ന്റെ യൂണിറ്റുകൾ യഥാർത്ഥത്തിൽ 4 എണ്ണം ഉണ്ട് 1 മൈനസ് 1 i മൈനസ് i അതിനാൽഇതെല്ലാം ഈ Z i റിംഗ്സിന്റെ യൂണിറ്റുകളാണ് ഇപ്പോൾ ഈ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതിൽ നമ്മൾ ഒരു നിഗമനത്തിൽ എത്തുന്നു നമുക്ക് നോക്കാം അതിനാൽ 1 പ്ലസ് i i മൈനസ് 1 എന്നിവ യൂണിറ്റുകളാണ് അസോസിയേറ്റുകൾ ആണ് എന്തുകൊണ്ടാണ് ഇത് കാരണം i മൈനസ് 1 എന്നത് 1 പ്ലസ് i ഇന്റു i ആണ് i ഒരു യൂണിറ്റാണ് ഇത് ഇന്റു i യൂണിറ്റ് എന്നാൽ 1 മൈനസ് i മൈനസ് 1 ആയതിനാൽ അവർ അസോസിയേറ്റുകളാണ് അതുപോലെ 2 പ്ലസ് ഐ 1 മൈനസ് 2 ഐ എന്നിവ അസോസിയേറ്റുകളാണ് കാരണം 2 പ്ലസ് ഐ ഇന്റു ഐ അല്ലെങ്കിൽ മൈനസ് ഐയോ നോക്കാം നിങ്ങൾ 2 പ്ലസ് ഐയും മൈനസ് ഐയും ഗുണിക്കുമ്പോൾ മൈനസ് ഐയും യൂണിറ്റാണ് നിങ്ങൾക്ക് മൈനസ് 2 i പ്ലസ് 1 ലഭിക്കുംഇത് ഇതിന് തുല്യമാണ് അതിനാൽ ഇവരും അസോസിയേറ്റുകളാണ് അതിനാൽ ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് സംഖ്യകൾ തീർച്ചയായുംഒരു സംഖ്യയുടെ അസോസിയേറ്റ് ആ സംഖ്യയോ അല്ലെങ്കിൽ ആ സംഖ്യയുടെ നെഗറ്റീവോ ആണ് അങ്ങിനെയാണെങ്കിൽ പരിചിതമായ ഉദാഹരണത്തിൽ അസ്സോസിയേറ്റുകൾ വ്യത്യസ്തമായി കാണപ്പെടും എന്നാൽ ഒരു റിംഗിന് കൂടുതൽ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ രസകരമായ അസോസിയേറ്റുകൾ ഉണ്ടാകും അതിനാൽ ഇവ അസോസിയേറ്റുകളുടെ ഉദാഹരണങ്ങളാണ് അതിനാൽ ഒരു എലമെൻറ് മറ്റൊരു എലമെന്റിന്റെ ഡിവൈസർ ആകണമെകിൽ എന്ത് വേണംഒരു എലമെൻ്റ് മറ്റൊരു എലമെന്റിന്റെ പ്രോപ്പർ ഡിവൈസർ ആകുന്നത് എങ്ങിനെ എന്നും കണ്ടു ഒപ്പം അസ്സോസിയേറ്റുകളെ കുറിച്ചും നമ്മൾ നിർവചിച്ചു അതിനാൽ ഏതെങ്കിലും ഇന്റഗ്രൽ ഡൊമെയ്നുകളിൽ സാധുവായ രണ്ട് സുപ്രധാന നിർവചനങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു അപ്പോൾ ഈ രണ്ട് പ്രധാന നിർവചനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നായിരിക്കട്ടെ ഞാൻ ഇത് ഇതുപോലെ ചെറുതാക്കും R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് ഇനിപ്പറയുന്ന രണ്ട് കാര്യങ്ങൾ നിർവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ ആദ്യം ഞാൻ പറയുന്നു a R ൻറെ ഒരു ഘടകമാകട്ടെ ഇത് ചെറുതാക്കാൻ പറ്റാത്തതാണെന്ന് നമ്മൾ പറയുന്നു മുമ്പ് ഇതുപോലെ റെഡ്യൂസിബിൾ അല്ലാത്ത പോളിനോമിയലുകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇത് യഥാർത്ഥത്തിൽ സമാനമാണ് എന്നാൽ ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഒരു പോളിനോമിയൽ റിംഗിൽ മാത്രമല്ല വാസ്തവത്തിൽ ഏതെങ്കിലും ഇന്റഗ്രൽ ഡൊമെയ്നിനായി ഇത് ചെയ്യാം ഇനിപ്പറയുന്നവ സംഭവിക്കുകയാണെങ്കിൽ a റെഡ്യൂസിബിൾ അല്ല സംഭവിക്കണമെന്ന് നിങ്ങൾ കരുതുന്നത് എന്താണ് നോൺട്രിവിയൽ ആയ രീതിയിൽ ഘടകങ്ങളില്ലാത്തവയാണ് ഇറെഡ്യുസിബിൾ പോളിനോമിയലുകൾ എന്ന് ഓർമ്മിക്കുക അതിനാൽ ഞാൻ ഉപയോഗിക്കുന്നത് അതേ ആശയം തന്നെയാണ് a ഇറെഡ്യുസിബിൾ ആകണമെങ്കിൽ ആദ്യം തന്നെ a ഒരു യൂണിറ്റ് ആകാൻ പാടില്ല ലാളിത്യത്തിനായി യൂണിറ്റുകളെ ഇറെഡ്യുസിബിൾ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഓരോ തവണയും ഞാൻ ഒരു പ്രൂഫ് പോലെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇറെഡ്യുസിബിൾ എലെമെന്റ്സിനെ പറയുന്നത് അത് യൂണിറ്റല്ലെന്ന് കരുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഇറെഡ്യുസിബിൾ ഘടകം നിർവചനം അനുസരിച്ച് ഒരു യൂണിറ്റല്ലെന്നും അതിന് പ്രോപ്പർ ഡിവൈസേഴ്സ് ഇല്ലെന്നും ഞാൻ പ്രഖ്യാപിക്കും അതിനാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പോളിനോമിയൽ റിംഗ്സിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പ്രോപ്പർ ഡിവൈസർ ഇല്ലെങ്കിൽ ഒരു പോളിനോമിയൽ റെഡ്യൂസിബിൾ ആകും ഓർക്കുക എല്ലാത്തിനും ഒരു ഡിവൈസർ ഉണ്ട് കാരണം a സ്വയം അതിന്റെ ഡിവൈസർ ആണ് ഏത് യൂണിറ്റും a യുടെ ഡിവൈസർ ആണ് എന്നാൽ അവയെ യഥാർത്ഥ ഡിവൈസർ ആയി കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ പ്രോപ്പർ ഡിവൈസർ ഇല്ലാത്ത ഇറെഡ്യുസിബിൾ ആയവ മാത്രം നോക്കാം രണ്ട് നിർവചനങ്ങളും നൽകിയ ശേഷം ഞാൻ നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്യും ആദ്യത്തെ പ്രധാന നിർവചനം a ഒരു പ്രൈം ആണ് എന്നതാണ് അടുത്ത പ്രധാന നിർവചനം a ഒരു യൂണിറ്റ് അല്ലെങ്കിൽ വീണ്ടും a പ്രൈം ആണ് അതിനാൽ യൂണിറ്റുകളെ പ്രൈമുകളായി പരിഗണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ബിസി എന്ന ഗുണനഫലത്തെ a വിഭജിച്ചാൽ തീർച്ചയായും ബി സി എന്നിവ R ന്റെ ഘടകങ്ങളാണ് ഇത് പൂർണ്ണസംഖ്യകളിലെ പ്രൈം നമ്പറുകളുടെ നിർവചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തും അതിനാൽ a ഒരു യൂണിറ്റ് അല്ല എ ഡിവൈഡ് പ്രോഡക്റ്റ് bc അങ്ങിനെയെങ്കിൽ എ ഡിവൈഡ് ബി അല്ലെങ്കിൽ എ ഡിവൈഡ് സി എന്നാണ് അതിനാൽ ഇതിനെ നമ്മൾ ഒരു പ്രൈം എലമെന്റ് എന്ന് വിളിക്കുന്നു ഒരു പ്രൈം എലമെന്റ് എന്നത് ഒരു യൂണിറ്റ് അല്ലാത്ത ഒന്നാണ് അതിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അത് രണ്ട് ഘടകങ്ങളുടെ പ്രൊഡക്ടിനെ മറ്റ് രണ്ട് റിംഗ് ഘടകങ്ങളായി വിഭജിക്കുകയാണെങ്കിൽഅതിന് അവയിലൊന്നിനെയും വിഭജിക്കാൻ കഴിയണം അതിനാൽ കൂടുതൽ രസകരമായ ഉദാഹരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായ ചില ഉദാഹരണങ്ങൾ വേഗത്തിൽ തരാം R ഇസഡ് ആയിരിക്കുമ്പോൾ ഈ രണ്ട് സങ്കൽപ്പങ്ങളും തുല്യമാണ് ഞാൻ അർത്ഥമാക്കുന്നത്എ എന്ന സംഖ്യ ഇസഡ് ന്റെ ആണെങ്കിൽ ആ പൂർണ്ണസംഖ്യ ഇറെഡ്യുസിബിൾ ആകണമെങ്കിൽ അത് ഒരു പ്രൈം ആയിരിക്കണം ഇത് നിങ്ങൾ പഠിച്ചിരിക്കാനിടയുള്ള ചില ഹൈസ്കൂൾ ഗണിതത്തിൽ നിന്ന് ഓർമിച്ചെടുക്കാവുന്നതാണ് പ്രൈം നമ്പറുകൾ കാണുക ഇത് പ്രൈം നമ്പറിന്റെ ഒരു നിർവചനമാണെന്ന് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഇറെഡ്യുസിബിൾ എന്ന് വിളിക്കുന്നത് പലപ്പോഴും ആളുകൾ പ്രൈം ഇൻറിജറായി കരുതുന്നതാണ് കാരണം ഒരു സംഖ്യയ്ക്ക് ഒന്ന് അല്ലെങ്കിൽ സംഖ്യ അല്ലാതെ മറ്റ് ഘടകങ്ങളില്ലെങ്കിൽ അത് ഒരു പ്രൈം ആണ് നമ്മുടെ ധാരണയിൽ ഒന്ന്അല്ലെങ്കിൽ ആ പൂർണ്ണസംഖ്യ എന്നിവ പ്രോപ്പർ ഡിവൈസർ അല്ല അതിനാൽ നിങ്ങൾ ഒരു പോസിറ്റീവ് സംഖ്യ എടുക്കുന്നു ഇതിന് മറ്റ് പോസിറ്റീവ് പ്രോപ്പർ ഡിവൈസർ ഇല്ലെങ്കിൽ അതായത് ഇതിന് 1 p എന്നിവ ഒഴികെയുള്ള ഡിവൈസർ ഇല്ലയെങ്കിൽ നമ്മൾ അതിനെ ഒരു പ്രൈം എന്ന് വിളിക്കുന്നു അതായത് പി പ്രൈമാണ് ആ ആശയം യഥാർത്ഥത്തിൽ ഒരു ഏകപക്ഷീയമായ ഇന്റഗ്രൽ ഡൊമെയ്നിന്റെ കാര്യത്തിൽ നമ്മൾ ഇറെഡ്യുസിബിൾ എന്ന് വിളിക്കുന്നു നിങ്ങൾ പ്രൈം നമ്പറുകൾ നിർവചിച്ചതിനുശേഷം ഒരു പ്രൈം ഇൻറിജറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന സിദ്ധാന്തം ഇങ്ങനെ പറയാം ആ സംഖ്യ പി പ്രൈം ആകണമെങ്കിൽ പി a b എന്നീ രണ്ട് സംഖ്യകളുടെ പ്രൊഡക്ടിനെ വിഭജിക്കണം അതോടൊപ്പം അത് അവയിലൊന്നിനെ വിഭജിക്കുകയും വേണം ഉദാഹരണത്തിന് 5 ഡിവൈഡ്സ് ab ഇത് നിങ്ങൾ മുമ്പ് കണ്ടിരിക്കേണ്ട ഒന്നാണ് അതിനുശേഷം 5 a അല്ലെങ്കിൽ b യെ വിഭജിക്കുന്നു നിങ്ങൾ കാണുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവന ഇത് നിങ്ങൾക്ക് പരിചിതമാണ് 5 പ്രൈം ആണ് കാരണം ഇതിന് ഈ പ്രോപ്പർട്ടി ഉണ്ട് അതിനെയാണ് നമ്മൾ ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിലെ ഒരു പ്രൈം എലെമെന്റ് എന്ന് വിളിക്കുന്നത് Z എന്ന ഇന്റഗ്രൽ ഡൊമെയ്നിന്റെ കാര്യത്തിൽ ഇവ യഥാർത്ഥത്തിൽ ഇറെഡ്യൂസിബിലിറ്റിപ്രിമാലിറ്റിക്കു തുല്യമാണ് അതിനാൽ ഇറെഡ്യൂസിബിൾ എലെമെന്റ്സ് Z എന്താണ് ഇത് നിങ്ങൾക്ക് എഴുതാൻ കഴിയും 1 എന്നത് ഒരു യൂണിറ്റായതിനാൽ കണക്കാക്കാനാവില്ലെന്ന് ഞാൻ കരുതുന്നു അതിനാൽ 2 5 2 3 5 7 ഉണ്ട് തീർച്ചയായും നമുക്ക് നിർവചനത്തിൽ ഒന്നും പരിഗണിക്കാനാവില്ല ഇത് അനുവദിക്കാതിരിക്കുന്നത് ഇവയുടെ നെഗറ്റീവും പ്രൈം എലെമെന്റ്സ് ആണ്ഇറെഡ്യൂസിബിൾ എലെമെന്റ്സ് ആണ് അതിനാൽ ഇസഡിന്റെ കാര്യത്തിൽ അവ രണ്ടും ഒരേ ആശയമാണെന്ന് വളരെ വ്യക്തമാണ് ഒരു എലമെൻ്റ് പ്രൈം ആണെങ്കിൽ മാത്രം അത് ഇറെഡ്യൂസിബിൾ ആകും ഇപ്പോൾ മറുവശത്ത് ഞാൻ പറഞ്ഞതുപോലെ പരിചിതമായ ഒരു ഉദാഹരണം ഇപ്പോൾ റിംഗ് R ഈക്വൽ ടു Z അഡ്ജോയ്ന്റ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 5 നോക്കാം ഇപ്പോൾ ഈ റിംഗ് Z അഡ്ജോയ്ന്റ് i യുമായി വളരെ സാമ്യമുള്ളതാണ് അതായത് കോംപ്ലക്സ് ആയ എല്ലാ സംഖ്യകളും a പ്ലസ് ബി ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 5 ആണ് ഇവിടെ a b എന്നിവ പൂർണ്ണസംഖ്യകളാണ് അതിനാൽ ഇത് സി യുടെ ഒരു ഉപ വലയമാണ് R എന്നത് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നാണ് അതിനാൽ പ്രൈം അല്ലാത്ത ഒരു ഇറെഡ്യൂസിബിൾ എലമെൻ്റ് ഉണ്ടെന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ പ്രതിഭാസം Z ൽ സംഭവിക്കുന്നില്ല കാരണം എല്ലാ ഇറെഡ്യൂസിബിൾ എലെമെന്റ്സും പ്രൈം ആണ് ഓരോ പ്രൈം എലെമെന്റ്സും ഇറെഡ്യൂസിബിൾ ആണ് പക്ഷേ അത് പൊതുവേ ശരി അല്ല അതിനാൽ ഇതിൽ ഞാൻ രണ്ട് ക്ലെയിമുകൾ ഉന്നയിക്കുന്നു 2 R ന്റെ ഒരു ഘടകം എന്ന നിലയിൽ ഇറെഡ്യൂസിബിൾ ആണ് എന്നാൽ 2 പ്രൈം അല്ല അതിനാൽ ഈ രണ്ട് പ്രസ്താവനകളും ഞാൻ തെളിയിക്കാൻ പോകുന്നു R റിങ്ങിലെ 2 എന്ന ഘടകം അതായത് വലയത്തിലെ R എലെമെന്റിലെ Z അഡ്ജോയിൻറ് സ്ക്വയർ റൂട്ട് മൈനസ് 5 എന്നത് ഇറെഡ്യൂസിബിൾ ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നു പക്ഷേ പ്രൈം അല്ല അതിനാൽ പൊതുവായി പറഞ്ഞാൽഇറെഡ്യൂസിബിൾ എലമെൻ്റ് പ്രൈം ആയിരിക്കേണ്ടതില്ല അതിനാൽ ഒന്നാമതായി എന്തുകൊണ്ട് 2 പ്രൈം ആണ് അല്ലെങ്കിൽ പ്രൈം അല്ല അതിനാൽ ആദ്യം 2 പ്രൈം അല്ലെന്ന് തെളിയിക്കാം ഈ വീഡിയോയുടെ ശേഷിക്കുന്ന ഭാഗം ഈ ക്ലെയിം തെളിയിക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ശ്രമകരമായ ഒരു കണക്കുകൂട്ടലാണ് അതിനാൽ നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം പിന്തുടരുന്നുവെന്ന് ദയവായി ഉറപ്പുവരുത്തുക ഇത് രസകരമായ ഒരു ഉദാഹരണമാണ് കോഴ്സിൽ നമ്മൾ ഇത് വീണ്ടും പരിഗണിക്കും ഇപ്പോൾ 2 പ്രൈം അല്ല 2 പ്രൈം അല്ലെന്ന് ഞാൻ എന്തിനാണ് കാണിക്കുന്നത് റിംഗിൽ രണ്ട് ഘടകങ്ങൾ അവയുടെ പ്രൊഡക്ടിനെ 2 കൊണ്ട് ഹരിക്കാംപക്ഷെ അവയെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അതിനാൽ ഞാൻ എടുക്കുന്ന പ്രോഡക്ട് 6 ആണ് അതിനാൽ 2 ഡിവൈഡ് 1 പ്ലസ് റൂട്ട് മൈനസ് 5 ഇന്റു 1 മൈനസ് റൂട്ട് മൈനസ് 5 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബി എന്ന് എഴുതാം ഇത് സി ആണ് എന്താണ് 1 പ്ലസ് റൂട്ട് മൈനസ് 5 ഇന്റു 1 മൈനസ് റൂട്ട് മൈനസ് 5 ഇത് ഒരു സാധാരണ ഫോം ആണ് എ മൈനസ് ബി ഇന്റു എ പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയേർഡ് മൈനസ് ബി സ്ക്വയർ അങ്ങനെ ഇത് 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 5 സ്ക്വയറാണ് അതായത് 1 മൈനസ് മൈനസ് 5 ആണ് ഇത് 1 പ്ലസ് 5 ആണ് ഈക്വൽ ടു 6 ആണ് അതിനാൽ തീർച്ചയായും 2 ബിസിയെ വിഭജിക്കുന്നു എന്നാൽ 2 ബി യെയോ സി യെയോ വിഭജിക്കുന്നില്ലെന്നും നമ്മൾ ഇപ്പോൾ കാണിക്കും 2 ബി സി എന്നിവയുടെ പ്രൊഡക്ടിനെ വിഭജിക്കുന്നു പക്ഷേ 2 ബി യെ വിഭജിക്കുന്നില്ല അല്ലെങ്കിൽ 2 സി യെ വിഭജിക്കുന്നില്ല അങ്ങിനെ വന്നാൽ നിർവചനം അനുസരിച്ച് 2 ഒരു പ്രൈം ആകാൻ വഴിയില്ല അതിനാൽ 2 എന്തുകൊണ്ട് ബിയെ വിഭജിക്കുന്നില്ല എന്തുകൊണ്ട് 2 സിയെ വിഭജിക്കുന്നില്ലകാരണം ഇതാണ് 2 ബിയെ വിഭജിക്കുന്നു എന്ന് കരുതുക അതിനാൽ നമ്മൾ വൈരുദ്ധ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് 2 bയെ വിഭജിക്കുന്നു എന്ന് കരുതുക അതിന്റെ അർത്ഥമെന്താണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽഏത് റിംഗിലും ഒരു എലമെൻ്റ് മറ്റൊരു എലെമെന്റിനെ വിഭജിക്കുമ്പോൾ എന്താണെന്നു ഞാൻ പൊതുവായി നിങ്ങളോട് പറഞ്ഞു അതായത് 2 ഇന്റു റിംഗ് എലമെന്റ് ബി നോക്കുക ഈ സാഹചര്യത്തിൽ 2 ഡിവൈഡ്സ് 6 2 ഇന്റു 3 ഈക്വൽ ടു 6 അതായത് 2 ഡിവൈഡ്സ് 6 എങ്കിൽ 2 ഡിവൈഡ്സ് b ബി എന്നാൽ വൺ പ്ലസ് റൂട്ട് മൈനസ് 5 എന്ന് ഓർക്കുക അങ്ങനെ2 ഇന്റു x പ്ലസ് y ഇന്റു റൂട്ട് ഓഫ് മൈനസ് 5 ഈക്വൽ ടു വൺ പ്ലസ് റൂട്ട് മൈനസ് 5 ഇതിൽ x y എന്നിവ Z ൽ ഉള്ളതാണ് x y സംഖ്യകൾ ഉണ്ടെങ്കിൽ 2ഇന്റു x പ്ലസ് y ഇന്റു റൂട്ട് ഓഫ് മൈനസ് 5 ഈക്വൽ ടു വൺ പ്ലസ് റൂട്ട് മൈനസ് 5 ആണ് അപ്പോൾ 1 പ്ലസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ഡിവൈഡെഡ് ബൈ 2 എന്ന് കിട്ടും ഇത് സാധ്യമല്ലെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നു 2 x പ്ലസ് 2 വൈ സ്ക്വയർ റൂട്ട് മൈനസ് 5 എന്നത് 1 പ്ലസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ആണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് പുനക്രമീകരിക്കാൻ പോകുന്നു ഞാൻ 1 കുറയ്ക്കുകയും 1 മൈനസ് 2 y ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 എന്ന് എഴുതുകയും ചെയ്യും 2 x മൈനസ് 1 പോലുള്ള പദങ്ങൾ ഞാൻ ഒരുമിച്ച് ചേർക്കുന്നു അതിനാൽ 1 ഇവിടെ വരുന്നു 2 y സ്ക്വയർ റൂട്ട് മൈനസ് 5 അവിടെ പോകുന്നു അങ്ങിനെ എനിക്ക് 1 മൈനസ് 2 y ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 എന്ന് കിട്ടും ഇപ്പോൾ എനിക്ക് കോംപ്ലക്സ് സംഖ്യകൾ വച്ച് ചെയ്യാൻ കഴിയും ഇവയെല്ലാം മറ്റൊരു വിധത്തിൽ കോംപ്ലക്സ് സംഖ്യകളാണ് ഇത് ചെയ്യുന്നതിന് എനിക്ക് 1 മൈനസ് 2 y കൊണ്ട് ഹരിക്കാം ഒന്നാമതായി 1 മൈനസ് 2 y ക്ക് 0 ആകാൻ കഴിയില്ല കാരണം y ഒരു പൂർണ്ണസംഖ്യയാണ് ഓർമ്മിക്കുക y ഒരു പൂർണ്ണസംഖ്യയാണ് അതിനർത്ഥം 1 ന് y ക്ക് തുല്യമാകാൻ കഴിയില്ല 1 മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒറ്റസംഖ്യ ആണ് അതുകൊണ്ട് 1 മൈനസ് 2 y 0 ആകാൻ പാടില്ല അതിനാൽ എനിക്ക് 1 മൈനസ് 2 y കൊണ്ട് ഹരിക്കാം പക്ഷേ ഇത് അസംബന്ധമാണ് എന്തുകൊണ്ടാണ് ഇത് അസംബന്ധം നിരവധി കാരണങ്ങൾ ഉണ്ട് ഒരു കാരണം ഇത് രണ്ട് പൂർണ്ണസംഖ്യകളുടെ അനുപാതമായതിനാൽ ഇത് ഒരു റേഷണൽ സംഖ്യയാണ് തീർച്ചയായും സ്ക്വയർ റൂട്ട് മൈനസ് 5 ഒരു റേഷനൽ സംഖ്യയല്ല ഈ റിയൽ നമ്പറും എന്നാൽ ഇത് ഒരു റിയൽ നമ്പർ അല്ല അതിനാൽ ഇത് മറ്റൊരു കാരണമാണ് അതിനാൽ 2 ബി യെ വിഭജിക്കുന്നില്ല 2 ബി യെ വിഭജിക്കുന്നില്ലെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇത് പോലെ തന്നെ 2 ഇന്റു x പ്ലസ് 5 ഇന്റു x പ്ലസ് 5 സ്ക്വയർ റൂട്ട് മൈനസ് y ഈക്വൽ ടു 1 മൈനസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ന് തുല്യമാണെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു അതായത് സി നമുക്ക് തെളിയിക്കാം സമാനമായ കണക്കുകൂട്ടൽ നടത്തുക അതിനാൽ 2 സി യെ വിഭജിക്കുന്നില്ല 2 ബി യെ വിഭജിക്കുന്നില്ല പക്ഷേ 2 ബിസിയെ വിഭജിക്കുന്നു Hence 2 is not prime so this is the first part അതിനാൽ 2ഒരു പ്രൈം അല്ല ഇതാണ് ആദ്യ ഭാഗം